ഓപ് ആമ്പ് ഉം ഉത്തമമായ ഓപ് ആമ്പും ഉപയോഗിക്കുന്ന നിരവധി സർക്യൂട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ ഒഴിവാക്കിയ നിർണായകമായ ഒരു വിശദാംശമുണ്ട് അതായത് ഓപ് ആമ്പ് എന്നത് വിദ്യുച്ഛക്തി ആവശ്യമുള്ള ഒരു ഉപകരണമാണ് അത് പ്രവർത്തിക്കാൻ ഏതെങ്കിലും വോൾട്ടേജ് ഉറവിടത്തിൽ നിന്നുള്ള വിദ്യുച്ഛക്തി ആവശ്യമാണ് അതിനാൽ ഈ പാഠത്തിൽ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയ ആ ഭാഗം അടിസ്ഥാനപരമായി പരിശോധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി വിതരണ വോൾട്ടേജുകൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രത്തോളം ആയിരിക്കാം എന്നതിന് ചില പരിധികൾ നിശ്ചയിക്കുന്നു എന്നിരിക്കിലും ഓപ് ആമ്പ് ആവശ്യാനുസരണം വളരെ വലിയ ഗെയിൻ A0 ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം അല്ലെങ്കിൽ ഉത്തമമായ ഓപ് ആമ്പ് ആയി പ്രവർത്തിക്കുന്നു അതാണ് സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാഠത്തിൽ നമ്മൾ അത് ചർച്ച ചെയ്യാൻ പോകുന്നു അതിനാൽ ഞാൻ ഇതുവരെ ഈ ചിഹ്നം ഓപ് ആമ്പിൻറെ മൂന്ന് ടെർമിനലുകൾക്കാണ് ഉപയോഗിച്ചിരുന്നത് അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഔട്ട്പുട്ട് ഇത് അപൂർണ്ണമാണ് നമുക്ക് വൈദ്യുതി വിതരണം ഘടിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ടെർമിനലുകൾ കൂടി ആവശ്യമാണ് അതിനാൽ സാധാരണയായി ഇത് V എന്ന നിലയിലും ഇത് V എന്ന നിലയിലും സമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിലേക്ക് ചില വൈദ്യുതി വിതരണങ്ങൾ ബന്ധിപ്പിക്കുക സാധാരണ സാഹചര്യത്തിൽ രണ്ട് വ്യത്യസ്ത വോൾട്ടേജുകൾ ആണ് ഉപയോഗിക്കുന്നത് V ടെർമിനലിലേക്ക് ഗ്രൌണ്ടും ആയി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതിന് VDD ഉം V ടെർമിനലിലേക്ക് ഗ്രൌണ്ടും ആയി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതിന് VSS ഉം ഉപയോഗിക്കുന്നു ഇത് കർശനമല്ല നിങ്ങൾക്ക് ഒരൊറ്റ വോൾട്ടേജ് ഉറവിടം ഉപയോഗിക്കാം പക്ഷേ മിക്ക മാതൃകാപരമായ ഓപ് ആമ്പ് ഉപയോഗങ്ങളിലും രണ്ട് വൈദ്യുതി വിതരണങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ ആ രീതിയിൽ ഉറച്ചുനിൽക്കും കൂടാതെ വൈദ്യുതി വിതരണ വോൾട്ടേജ് ഉറവിടങ്ങൾ ഇതുപോലെ കാണിക്കാതെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത് സാധാരണമാണ് അതിനാൽ ഇതാണ് V ടെർമിനൽ അതാണ് V ടെർമിനൽ ഇത് VDD ഉം VSS ഉം ആണെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ഇതിനർത്ഥം ഈ ടെർമിനലിനും ഗ്രൌണ്ടിനുമിടയിൽ VDD എന്ന മൂല്യമുള്ള ഒരു വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പിന്നെ ഇതിനർത്ഥം ഈ ടെർമിനലിനും ഗ്രൌണ്ടിനുമിടയിൽ VSS എന്ന മൂല്യമുള്ള ഒരു വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിലോ നമ്മൾ നിർമ്മിച്ച ഏതെങ്കിലും സർക്യൂട്ടിലോ ഇത് എന്ത് സ്വാധീനം ആണ് ചെലുത്തുന്നത് ഓപ് ആമ്പിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ന് VDD ക്കും VSS നും ഇടയിൽ സ്വിംഗ് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നു വാസ്തവത്തിൽ ഇതിന് VDD ലേക്ക് ഉയരാനോ VSS ലേക്ക് താഴാനോ കഴിയില്ല സാധാരണയായി V0 നുള്ള അനുവദനീയമായ പരിധി VDD ക്കും VSS നും ഇടയിലാണ് അതിനാൽ പൊതുവേ ഉപയോഗിക്കാറുള്ള ഓപ് ആമ്പിൽ നിന്ന് ചില സാധാരണ മൂല്യങ്ങൾ ഞാൻ എടുക്കട്ടെ VDD 12 വോൾട്സ്ഉം VSS 12 വോൾട്സ്ഉം ആയിരിക്കാം അതിനാൽ നമുക്ക് 12 വോൾട്സ്ഉം 12 വോൾട്സ്ഉം ഉണ്ട് ഔട്ട്പുട്ട് 10 5 വോൾട്സ്നും 10 5 വോൾട്സ്നും ഇടയിൽ ആയിരിക്കാം എന്ന് പറയാം എന്നാൽ അത് ഇപ്പോഴും ഒരു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമായി പ്രവർത്തിക്കുന്നു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമായി പ്രവർത്തിക്കുന്നതിനായി ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് V0 ന് ചില പരിധികൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഓപ് ആമ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിതരണ വോൾട്ടേജുകളാണ് ആ പരിധി സജ്ജീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ V0 ലെ പരിധികൾ വൈദ്യുതി വിതരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ അൽപ്പം കുറവായിരിക്കും അതായത് അതിന് VDD ലേക്ക് ഉയരാനോ VSS ലേക്ക് താഴാനോ കഴിയില്ല ഇപ്പോൾ ഓപ് ആമ്പിൻറെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി Vo ൻറെ പരിധി എന്നത് VDD യ്ക്കും VSS നും ഇടയിലുള്ള 12 വോൾട്സ്നും 12 വോൾട്സ്നും ഇടയിലുള്ള ഈ മുഴുവൻ പരിധിയും ആണെന്ന് നമ്മൾ കരുതുന്നു അതിനാൽ ഇത് V0 ന് ഉള്ള അനുവദനീയമായ പരിധി ആണ് ഇപ്പോൾ ഇതിനുപുറമേ ഞാൻ ഇൻപുട്ട് വോൾട്ടേജുകളെ V1 എന്നും V2 എന്നും വിളിക്കുകയാണെങ്കിൽ V1 നും V2 നും ചില പരിധി നിശ്ചയിക്കേണ്ടതുണ്ട് ഓപ് ആമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ ഒരു നിർദ്ദിഷ്ട ഓപ് ആമ്പിനെ കുറിച്ചല്ല സംസാരിക്കുന്നതെങ്കിൽ എന്നാൽ നമ്മൾ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ V1 V2 എന്നിവയെ അതേ പരിധിയിൽ തന്നെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതിനാൽ ഇതാണ് V1 V2 എന്നിവയ്ക്കുള്ള പരിധി ഓർക്കുക ഓപ് ആമ്പിനെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ സ്ഥാപിക്കുമ്പോൾ ഈ V1 ഉം V2 ഉം പരസ്പരം വളരെ അടുത്തായിരിക്കും എന്നാൽ അവയ്ക്ക് ഓരോന്നിനും ഏത് മൂല്യവും എടുക്കാം ആ മൂല്യം ഇതിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇതിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതായത് VDD യ്ക്കും VSS നും ഇടയിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് V1 V2 V0 എന്നിവ ഈ മൂല്യങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓപ് ആമ്പ് വളരെ വലിയ ഗെയിൻ ഉള്ള ഒരു ഉത്തമമായ വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നും പലപ്പോഴും അത് ഗെയിൻ അനന്തമായ ഒരു ഉത്തമമായ ഓപ് ആമ്പിന് സദൃശ്യമായിരിക്കുമെന്നും ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ A0 ഗെയിൻ ഉള്ള ഒരു ഓപ് ആമ്പ് എടുത്ത് V0 ന് എതിരായി Vd പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു നേർരേഖയായിരിക്കും കാരണം നമ്മൾ അതിനെ ഒരു ലീനിയർ ആയ വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമായാണ് മാതൃകയാക്കിയിട്ടുള്ളത് ചെരിവ് വളരെ വലുതായിരിക്കും വാസ്തവത്തിൽ x y അക്ഷങ്ങൾ ഒരേ അളവിൽ ആണെങ്കിൽ അത് ഏറെക്കുറെ ലംബമായ രേഖയായിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് ചെരിവ് കാണിക്കണം അതിനാൽ ഞാൻ അത് അങ്ങനെ കാണിക്കും ഇതിന്റെ ചെരിവ് മറ്റൊന്നുമല്ല ഗെയിൻ A0 ആണ് എന്നാൽ ഇതിങ്ങനെ അനന്തമായി തുടരില്ല വൈദ്യുത വിതരണ വോൾട്ടേജ് VDD ഉം താഴത്തെ വൈദ്യുത വിതരണ വോൾട്ടേജ് VSS ഉം ആണെന്ന് കരുതുകയാണെങ്കിൽ മുകൾ ഭാഗം VDD എന്നും താഴത്തെ ഭാഗം VSS എന്നും പരിമിതപ്പെടുത്താം ഇത് ഓപ് ആമ്പിൻറെ സവിശേഷത ആണ് ഇപ്പോൾ നമ്മൾ ഒരു ഉത്തമമായ ഓപ് ആമ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ചെരിവ് പരിഗണിച്ച് ഒപ് ആമ്പിന്റെ ഗെയിൻ അനന്തമാണെന്ന് കണക്കാക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും അനന്തമായി വലുതല്ലാത്ത വൈദ്യുതി വിതരണം ഉള്ളതിന്റെ ഫലം വിലയിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഇത് A0 സമം അനന്തത എന്ന് കാണിക്കും ഈ സാഹചര്യത്തിൽ ഞാൻ V0 ന് എതിരായി Vd പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു നേർ ലംബ രേഖ ലഭിക്കും എന്നാൽ അത് VDD ലും VSS ലും സാച്ചുറേറ്റ് ചെയ്യപ്പെടും അതിനാൽ ഈ മേഖലകൾ സാച്ചുറേഷൻ മേഖലകൾ എന്നറിയപ്പെടുന്നു ഇപ്പോൾ ഓപ് ആമ്പ് സർക്യൂട്ട് നമ്മൾ മുമ്പ് വിശകലനം ചെയ്ത രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കുമ്പോൾ A0 യുടെ പരിധി അനന്തമായി കണക്കാക്കുകയാണെങ്കിൽ ഇതിൻറെ ഇൻപുട്ട് വോൾട്ടേജ് വളരെ ചെറുതോ അല്ലെങ്കിൽ പൂജ്യമോ ആയിരിക്കണം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ രണ്ടു പരിധികളിൽ എത്താൻ പാടില്ല അതുപോലെ ഇൻപുട്ട് വോൾട്ടേജുകൾ V1 V2 എന്നിവ വ്യക്തിഗതമായി ഈ പരിധികളിൽ എത്താൻ പാടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അതായത് വളരെ ഉയർന്ന വോൾട്ടേജ് ഗെയിൻ ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമായി ഓപ് ആമ്പുകൾ പ്രവർത്തിക്കുന്നതിനായി ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകൾക്ക് ചില പരിധികൾ ഉണ്ട് ഇപ്പോൾ ഇതിന് ഒരു സർക്യൂട്ടിൽ ഉള്ള സ്വാധീനം എന്താണ് നമുക്ക് വളരെ പരിചിതമായ ഒരു സർക്യൂട്ട് എടുക്കാം എനിക്ക് ഇതിൽ 9 കിലോ Ω ഉം 1 കിലോ Ω ഉം ഉണ്ടെന്ന് പറയാം ഇത് നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ആണ് കൂടാതെ ഓപ് ആമ്പ് ഉത്തമമാണെന്ന് ഞാൻ അനുമാനിക്കുന്നു അതായത് അതിൻറെ ഗെയിൻ അനന്തതയിലേക്ക് നീങ്ങുന്ന അത്ര വളരെ വലുതാണ് ഇപ്പോൾ ഞാൻ വിതരണ വോൾട്ടേജ് 12 വോൾട്സ്ഉം 12 വോൾട്സ്ഉം ഉപയോഗിക്കുന്നു അതിനാൽ എനിക്ക് ഇവിടെ Vi ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ 10×Vi ഉണ്ടായിരിക്കും ഈ ആംപ്ലിഫയറിന്റെ ഗെയിൻ 10 ആണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജുകൾ എന്തുതന്നെ ആണെങ്കിലും ഇവിടെ അത് 10 Vi ആണ് അത് ഉയർന്ന വൈദ്യുത വിതരണത്തിനും താഴ്ന്ന വൈദ്യുത വിതരണത്തിനും ഇടയിലായിരിക്കണം അതായത് 12 വോൾട്സ്നും 12 വോൾട്സ്നും ഇടയിലായിരിക്കണം അതായത് നമ്മൾ പ്രതീക്ഷിച്ചതു പോലെ ഈ ആംപ്ലിഫയർ പ്രവർത്തിക്കണമെങ്കിൽ അതായത് ഗെയിൻ 10 ഉള്ള ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കണമെങ്കിൽ Vi എന്നത് 1 2 വോൾട്സ്ഉം 1 2 വോൾട്സ്ഉം ആയി പരിമിതപ്പെടുത്തണം കാരണം നിങ്ങൾ ഈ പരിധികൾ കവിയുന്നുവെങ്കിൽ അതായത് നമുക്ക് പറയാം നിങ്ങൾ Vi എന്നത് 1 5 വോൾട്സ് കൊടുക്കുകയാണെങ്കിൽ ഗെയിൻ 10 ഉള്ള ആംപ്ലിഫറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഔട്ട്പുട്ട് 15 വോൾട്സ് ലഭിക്കും എന്നായിരിക്കും എന്നാൽ ഔട്ട്പുട്ട് ഈ വൈദ്യുത വിതരണ ത്തേക്കാൾ ഉയർന്നതായിരിക്കില്ല അതിനാൽ ഇത് 12 വോൾട്സ്ൽ സാച്ചുറേറ്റ് ചെയ്യപ്പെടും അതിനാൽ ഇൻപുട്ട് വോൾട്ടേജുകൾ ഈ പരിധികൾക്കിടയിൽ ആണെങ്കിൽ V0 എന്നത് 10×Vi ആയിരിക്കും Vi എന്നത് 1 2 വോൾട്സ്നേക്കാൾ ചെറുതാണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് സാച്ചുറേഷൻ ലെവലായ 12 വോൾട്സ്ൽ സാച്ചുറേറ്റ് ചെയ്യപ്പെടും Vi എന്നത് 1 2 വോൾട്സ്നേക്കാൾ കൂടുതലാണെങ്കിൽ V0 പോസിറ്റീവ് സാച്ചുറേഷൻ ലെവലായ 12 വോൾട്സ്ൽ സാച്ചുറേറ്റ് ചെയ്യപ്പെടും അതിനാൽ ഈ സന്ദർഭങ്ങളിൽ ഇത് ഒരിക്കലും ഒരു ആംപ്ലിഫയർ പോലെയല്ല പ്രവർത്തിക്കുന്നത് സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒരു സിഗ്നൽ നിങ്ങൾ കൊടുക്കുന്നു എന്നു പറയട്ടെ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിനുള്ള മാതൃക സിഗ്നൽ സൈനുസോയിഡ് ആണ് അതിൻറെ പരമാവധി മൂല്യം Vp ആണെന്ന് നമുക്ക് പറയാം ഔട്ട്പുട്ടിൽ പ്രതീക്ഷിക്കുന്ന പരമാവധി മൂല്യം 10×Vp ആണ് കാരണം ഔട്ട്പുട്ട് എന്നത് 10×ഇൻപുട്ട് ആണ് ഇത് സംഭവിക്കുന്നത് 10×Vp സാച്ചുറേഷൻ പരിധിക്കുള്ളിലാണെങ്കിൽ ആണ് അതിനാൽ Vp എന്നത് 1 വോൾട്സ് ആകുമ്പോൾ ഈ 10×Vp എന്നത് 10 വോൾട്സ് ആണ് സാച്ചുറേഷൻ പരിധി ശരിക്കും 12 വോൾട്സ് ലും 12 വോൾട്സ് ലും ആയതിനാൽ സിഗ്നൽ അതിനിടയിൽ സുരക്ഷിതമായി സ്വിംഗ് ചെയ്യുന്നു പകരം നമുക്ക് Vp എന്നത് 1 5 വോൾട്സ് ആണെന്ന് പറയാം ഗെയിൻ 10 ഉള്ള ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വ്യാപ്തി 10×Vp അതായത് 15 വോൾട്സ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സൈൻ തരംഗം സമമിതിയാണ് അതിനാൽ മറുവശത്ത് പരമാവധി മൂല്യം 15 വോൾട്സ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത് സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഉയർന്ന പരിധി 12 വോൾട്സ്ഉം താഴ്ന്ന പരിധി 12 വോൾട്സ്ഉം ആണ് ഔട്ട്പുട്ട് 12 വോൾട്സ്നും 12 വോൾട്സ്നും ഇടയിൽ ആയിരിക്കുന്നിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ പിന്തുടരും പിന്നെ അത് അവിടെ സാച്ചുറേറ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ താഴേക്ക് നോക്കുമ്പോഴും അത് അവിടെ സാച്ചുറേറ്റ് ചെയ്യപ്പെടും അതിനാൽ ഇതൊരു നല്ല ആംപ്ലിഫയർ അല്ല എന്നത് വ്യക്തമാണ് കാരണം ഔട്ട്പുട്ടിൻറെ ആകൃതി ഇൻപുട്ടിൻറെ ആകൃതിയോട് സാമ്യമുള്ളതല്ല ഔട്ട്പുട്ട് എന്നത് ലളിതമായി 10×ഇൻപുട്ട് അല്ല അതിനാൽ നിങ്ങൾ ഒരു ഓപ് ആമ്പ് ഉപയോഗിക്കുമ്പോഴെല്ലാം എല്ലാ വോൾട്ടേജ് അളവുകളും അതായത് ഓപ് ആമ്പന്റെ പ്രസക്തമായ വോൾട്ടേജ് അളവുകളായ V1 V2 എന്നീ വ്യക്തിഗത ഇൻപുട്ട് വോൾട്ടേജുകളും V0 എന്ന ഔട്ട്പുട്ട് വോൾട്ടേജും നിർദ്ദിഷ്ട പരിധിക്കുള്ളിലാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഒരു പ്രത്യേക ഓപ് ആമ്പിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അഭാവത്തിൽ പരിധികൾ വൈദ്യുത വിതരണ വോൾട്ടേജിന് തുല്യമാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം ഇപ്പോൾ ഇത് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു VDD VSS എന്നിവയ്ക്ക് തുല്യ മൂല്യങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് സമമിതി വൈദ്യുത വിതരണങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമാണ് ഇവിടെ മുകളിലുള്ള സപ്ലൈ വോൾട്ടേജ് 12 ഉം താഴെയുള്ളത് 12 ഉം ആണ് പക്ഷേ അവ തുല്യം ആകണം എന്നത് അനിവാര്യമല്ല നിങ്ങൾക്ക് 12 വോൾട്സ്ഉം 6 വോൾട്സ്ഉം ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് V1 V2 V0 എന്നിവയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പരിധികളെ മാത്രമേ മാറ്റൂ അതുപോലെ രണ്ടാമത്തെ വൈദ്യുത വിതരണ വോൾട്ടേജ് പൂർണ്ണമായി ഒഴിവാക്കി ഒറ്റ വൈദ്യുത വിതരണ വോൾട്ടേജ് മാത്രം ഉപയോഗിക്കാനും കഴിയും അതായത് താഴ്ന്ന വോൾട്ടേജ് പൂജ്യം വോൾട്സ് ആയിരിക്കും നിങ്ങൾക്ക് അതിനെ ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിക്കാം മുകളിലെ വോൾട്ടേജ് എന്തുമാകാം അത് 12 വോൾട്സ് ആകാം അപ്പോൾ ഉദാഹരണത്തിന് 12 വോൾട്സ്ഉം പൂജ്യം വോൾട്സ്ഉം അതിനാൽ ഇത് ഓപ് ആമ്പന്റെ സിംഗിൾ സപ്ലൈ പ്രവർത്തനം എന്നറിയപ്പെടുന്നു നിങ്ങളുടെ സർക്യൂട്ടിലെ V1 V2 V0 എന്നിവ പൂജ്യത്തിനും 12 വോൾട്സ്നുമിടയിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ ഇത് തികച്ചും സാദ്ധ്യമാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ ക്രമീകരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇതിൻറെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ ഒറ്റ വൈദ്യുത വിതരണ വോൾട്ടേജ് ഉപയോഗിച്ച് ഓപ് ആമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും